ട്രാൻസിസ്റ്ററിന്റെ സ്മോൾ സിഗ്നൽ പരാമീറ്ററ്റേഴ്സിന്റെ അതായത് ത്രെഷോൾഡ് വോൾട്ടേജ് കറൻറ് ഫാക്ടർ എന്നീ ട്രാൻസിസ്റ്റർ പരാമീറ്ററുകളുമായി ബന്ധപ്പെട്ട ട്രാൻസിസ്റ്റർ ട്രാൻസ്കണ്ടക്റ്റൻസിന്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ കഴിയുന്ന ഒരു ബയാസിങ് സ്കീമിൽ നമ്മളെത്തി അതിനാൽ ട്രാൻസിസ്റ്ററിന് VGS 3 V നൽകണമെന്ന് പറയുന്നതിനുപകരം നമ്മൾ ചെയ്തത് ഇനിപ്പറയുന്നവയായിരുന്നു അതിനാൽ ഇത് സാച്ചുറേഷനിൽ ആണെങ്കിൽ ഇത് 200μA കറന്റ് എടുക്കുമെന്ന് നമുക്കറിയാം അതിനാൽ ഇതിനുപകരം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നു വെച്ചാൽ നമുക്ക് 200 μA ന്റെ ഒരു കറൻറ് സോഴ്സുണ്ട് അത് ട്രാൻസിസ്റ്ററിന്റെ യഥാർത്ഥ ഡ്രെയിൻ കറൻറുമായി താരതമ്യം ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ ഇതാണ് ഡ്രെയിൻ വോൾട്ടേജ് ഇവിടെ VD ഈ 200μAഉം ID ഉം തമ്മിലുള്ള വ്യത്യാസത്തെ ആശ്രയിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യും അതിനാൽ ID വളരെ ചെറുതാണെങ്കിൽ അത് വർദ്ധിക്കുന്നു ID വളരേ ചെറുതാണെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ മനസിലാക്കണം അതിനാൽ നിങ്ങൾ ഡ്രെയിനിനെ ഗേറ്റുമായി ബന്ധിപ്പിച്ചാൽ ഗേറ്റ് വോൾട്ടേജ് ശരിയായ ദിശയിൽ ക്രമീകരിക്കും അതിനാൽ ID വളരെ ചെറുതാണെങ്കിൽ ഈ വോൾട്ടേജ് കൂടും കാരണം 200 μA എന്നത് ID യേക്കാൾ കൂടുതലാണ് കൂടാതെ ഇവ തമ്മിലുള്ള വ്യത്യാസം ഈ നോഡിലെ പാരസിറ്റിക് കപ്പാസിറ്റൻസിലേക്ക് പ്രവഹിക്കുകയും അതിന്റെ വോൾട്ടേജ് ഉയർത്തുകയും ഇത് ഗേറ്റ് വോൾട്ടേജ് ഉയർത്തുകയും ചെയ്യുന്നു അതിനാൽ ID വർദ്ധിക്കുന്നു അതിനാൽ ഒടുവിൽ 200 μA യും ID യും പരസ്പരം തുല്യമാകുമ്പോൾ ഈ സർക്യൂട്ടുകൾ സ്ഥിരത കൈവരിക്കും അതിനാൽ പാരസിറ്റിക് കപ്പാസിറ്ററിലേക്ക് കറൻറ് പ്രവഹിക്കില്ല അതിനാൽ സർക്യൂട്ടുകൾ ID 200 μAയിൽ സ്ഥിരമാകും ഇപ്പോൾ ഇത് എങ്ങനെയാണ് സഹായിക്കുന്നത് gmന്റെ എക്സ്പ്രെഷൻ നമുക്ക് ആദ്യമേ അറിയാം kn - കറന്റ് ഫാക്ടർ ഗുണനം അല്ലെങ്കിൽ 2kn ID ആദ്യ പദപ്രയോഗം VGS കോൺസ്റ്റന്റ് ആകുമ്പോൾ ഉപയോഗിക്കാം Vt gm നെ നേരിട്ട് സ്വാധീനിക്കുന്നതായി നമുക്ക് കാണാം കൂടാതെ kn gmനെ നേരിട്ട് സ്വാധീനിക്കുന്നു രണ്ടാമത്തെ കേസിൽ ID സ്ഥിരമായി നിലനിർത്തുമ്പോളാണ് ഇത് ഉപയോഗപ്രദമാകുന്നത് gm കറൻറ് ഫാക്ടറിന്റെ സ്ക്വയർ റൂട്ടിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ കറൻറ് ഫാക്ടർ പത്ത് ശതമാനം മാറുകയാണെങ്കിൽ gm അഞ്ച് ശതമാനം മാത്രമേ മാറുന്നുള്ളൂ ഈ വോൾട്ടേജ് പരിശോധിക്കുന്നതിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ഈ വോൾട്ടേജ് എന്തായിരിക്കണം നിങ്ങളത് സ്വയം കണക്കാക്കാനും എന്റെ പക്കലുള്ളതുമായി താരതമ്യപ്പെടുത്താനും ഞാൻ നിർദ്ദേശിക്കുന്നു സ്റ്റഡി സ്റ്റേറ്റിൽ ID 200μAനു തുല്യമായിരിക്കണം അല്ലെങ്കിൽ പൊതുവായി I0നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ അതിനാൽ ഇത് സാച്ചുറേഷനിൽ ആണെങ്കിൽ ID എന്നുപറയുന്നത് kn22 kn ആയിരിക്കും ഇങ്ങനെ μ CoxwL ആയിരിക്കും ഇപ്പോൾ ID I0 നു തുല്യമായിരിക്കണം അതിനാൽ നമുക്കിവിടെ VGS പരിഹരിക്കാനാകും Vt2kn ID എന്നു കിട്ടും അതിനാൽ ഇത് ചില ബീജഗണിത കൃത്രിമത്വം മാത്രമാണ് പക്ഷേ ഇത് നമ്മോട് എന്താണ് പറയുന്നത് ട്രാൻസിസ്റ്ററിനു വലിയ Vt ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ത്രഷോൾഡ് വോൾട്ടേജ് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വലുതാണെങ്കിൽ കറൻറ് ചെറുതായിരിക്കും എന്നാൽ ഈ സാഹചര്യത്തിൽ ഈ പദപ്രയോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും Vt നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വലുതാണ് VGS ഉം അതിനനുസരിച്ച് വർദ്ധിക്കും അതിനാൽ വലിയ ഒരു Vt ഉള്ള ട്രാൻസിസ്റ്റർ സ്വയം ഒരു വലിയ VGS ഇൽ ബയസ് ചെയ്യപ്പെടും അതുപോലെ കറൻറ് ഘടകം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ചെറുതാണെങ്കിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കറന്റ് ലഭിക്കും ഇവിടെ എന്ത് സംഭവിക്കുന്നു ഇവിടെ kn ആണ് ഡിനോമിനേറ്ററെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കറൻറ് ഫാക്ടർ പ്രതീക്ഷിച്ചതിലും ചെറുതാണ് VGS വർദ്ധിക്കുന്നു അതിനാൽ ചെറിയ കറൻറ് ഫാക്ടറുള്ള ഒരു ട്രാൻസിസ്റ്റർ സ്വയമേ ഒരു ഉയർന്ന ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിൽ ബയസ് ചെയ്യപ്പെടുന്നു ഇത് കൃത്യമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫീഡ്ബാക്കാണ് ഈ കറന്റ് നൽകിയാൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് സ്വയമേ സജ്ജമാകുമെന്നും ത്രെഷോൾഡ് വോൾട്ടേജ് വലുതാണെങ്കിൽ VGS ന്റെ മൂല്യം വലുതായിരിക്കുമെന്നും അടിസ്ഥാനപരമായി ഇത് പറയുന്നു കറൻറ് ഫാക്ടർ ചെറുതാണെങ്കിൽ ഇത് വലുതായിരിക്കും gmന്റെ മാറ്റം എന്തുകൊണ്ട് ചെറുതായിരിക്കുമെന്ന് ഇത് മനസ്സിലാക്കിതരുന്നു ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ ത്രെഷോൾഡ് വോൾട്ടേജ് വലുതാണെങ്കിൽ VGS അതിനനുസരിച്ച് വലുതായിരിക്കും അതിനാൽ വ്യത്യാസം സ്ഥിരമായി തുടരുന്നു അതുപോലെ kn ചെറുതാണെങ്കിൽ VGS വലുതായിരിക്കും അതിനാൽ ഇത് ഒരു പരിധിവരെ കുറവു തീർക്കുന്നു അതും ഇവിടെ നിന്ന് വരുന്നു കാരണം ഈ പ്രത്യേക സർക്യൂട്ടിൽ രണ്ടാമത്തെ സർക്യൂട്ടിൽ VGS സ്ഥിരമാക്കിയിട്ടില്ല ഈ പദപ്രയോഗം എപ്പോഴും ശരിയാണ് VGS നു എല്ലായ്പോഴും ശരിയായ മൂല്യം നിങ്ങൾ പ്രയോഗിച്ചാൽ മതി അതിനാൽ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുപറയുന്നത് ട്രാൻസിസ്റ്റർ പാരാമീറ്ററുകളിലെ മാറ്റങ്ങളോട് പ്രതികരിക്കുന്നതിന് VGS നെ തിട്ടപ്പെടുത്തുന്ന രീതിയാണ് ഉയർന്ന ത്രെഷോൾഡ് വോൾട്ടേജോ ഒരു സ്മോൾ കറൻറ് ഫാക്ടറോ ഉള്ള ഒരു ട്രാൻസിസ്റ്റർ ഉയർന്ന ത്രെഷോൾഡിന്റെ അല്ലെങ്കിൽ കുറഞ്ഞ കറൻറ് ഫാക്ടറിന്റെ സ്വാധീനത്തെ മറികടന്ന് സ്വയം ഉയർന്ന VGS ൽ ബയസ് ചെയ്യപ്പെടും